നാം കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്സിൻറെ ടോപ്പോളജി ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് സിന്തസൈസ് ചെയ്തിരിക്കുന്നു ഇനി ഇത് എങ്ങനെ പെരുമാറുന്നുവെന്ന് കാണാൻ നമുക്കത് വിശകലനം ചെയ്യാം ഇവിടെ ഇൻപുട്ട് കറൻറ് സോഴ്സ് i1 ഉണ്ട് ഇവിടെ MOS ട്രാൻസിസ്റ്റർ ഉണ്ട് ഇതാണ് ഗേറ്റ് ഡ്രയിൻ സോഴ്സ് എന്നിവ ഇനി റെസിസ്റ്റൻസ് ബന്ധിപ്പിക്കണം ഇത് ട്രാൻസ് റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു അതായത് VO എന്നത് iiRm എന്നതിന് തുല്യമായിരിക്കണം ഔട്ട്പുട്ട് VO ഇവിടെയാണ് ഇതാണ് VGS ഇതാണ് gmvgs ഇതുകൂടാതെ നമ്മുടെ കറൻറ് സോഴ്സ് കുറ്റമറ്റത് ആയിരിക്കില്ല ഇതിനു കുറുകെ ഒരു റസിസ്റ്റൻസ് Rs ഉണ്ട് പിന്നെ തീർച്ചയായും എന്തിനെയെങ്കിലും ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഒരു ലോഡ് ഉണ്ടായിരിക്കും ഇതാണ് മുഴുവനായുള്ള സർക്യൂട്ട് ഇനി നിങ്ങൾക്ക് VOii എന്നത് യഥാർത്ഥത്തിൽ ഈ സർക്യൂട്ടിൽ എന്താണ് എന്ന് വിശകലനം ചെയ്യാം പതിവുപോലെ ലീനിയർ സർക്യൂട്ട് അനാലിസിസ് നടത്തി ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താനാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക അതിനുശേഷം അത് എനിക്ക് ഇവിടെ ലഭിക്കുന്നതും ആയി താരതമ്യം ചെയ്യുക ഇനി ഈ സർക്യൂട്ടിൻറെ കാര്യത്തിൽ കുറച്ചു വ്യത്യസ്തമായ രീതിയിൽ നാം മുൻപ് വിശകലനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നാം ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു ഇതിൻറെ സ്മാൾ സിഗ്നൽ ഇക്വിവാലന്റ് സർക്യൂട്ട് ഓർത്തെടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെയായിരുന്നു MOS ട്രാൻസിസ്റ്റർ ഇവിടെയായിരുന്നു ഇൻപുട്ട് എന്നത് വോൾട്ടേജ് സോഴ്സ് Vi റെസിസ്റ്റൻസ് Rs എന്നിവ സീരിസ് ആയി ബന്ധിപ്പിച്ചത് ആയിരുന്നു ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RG ആണ് ഇത് VGS ആണ് ഇത് gm VGS ഇത് RL ആണ് ഇനി ഇവിടെയുള്ളത് കൃത്യമായി ഇതുപോലെ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ RG എന്നത് അവിടെ Rm എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ റെസിസ്റ്റൻസ് Rs ഒരു വോൾട്ടേജ് സോഴ്സിന്റെ കൂടെ സീരിസ് ആയി ബന്ധിപ്പിക്കുന്നതിനുപകരം ഇവിടെ കറൻറ് സോഴ്സ് ii റെസിസ്റ്റൻസ് Rs എന്നിവ പാരലൽ ആയിട്ടാണ് കാണുന്നത് അതിനാൽ ഇവിടെ ലഭിച്ച എല്ലാ ഫലങ്ങളും ഇവിടെയും ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് ഇത് തുടക്കം മുതൽ വിശകലനം ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്ത് എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന ഉത്തരങ്ങൾ ഒന്നുതന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് മുൻപത്തെ ഒരു അനാലിസിസിൽ നിന്നുള്ള ഫലങ്ങൾ ഉപയോഗിക്കാമെന്ന് ഉള്ളതിനാലാണ് ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കമ്പണന്റ് വാല്യൂസ് മാറുമ്പോൾ ഒരേ സർക്യൂട്ട് എങ്ങനെ വ്യത്യസ്തമായി പെരുമാറുന്നു എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആണ് ഇതൊരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സും തീർച്ചയായും ചില വാല്യൂസ് കൂടിച്ചേരുമ്പോൾ ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആയി പ്രവർത്തിക്കുന്നു മറ്റുചില കമ്പണന്റ് വാല്യൂസ് കൂടിച്ചേരുമ്പോൾ ഇത് ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയി പ്രവർത്തിക്കുന്നു നാം ഇതെല്ലാം കാണുന്നതാണ് ഇത് ഇനി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് ഇവിടെയുള്ള ഈ ഭാഗം Vi Rs എന്നിവ ആ ഭാഗത്തിന് സമമാണ് ഇവ രണ്ടും തമ്മിൽ തുല്യം ആയിരിക്കും Vi iiRs ആണെങ്കിൽ ഞാൻ അർത്ഥമാക്കുന്നത് Rs നോട് പാരലൽ ആയിട്ടുള്ള ഈ കറൻറ് സോഴ്സ് Rs നു സീരീസിൽ ഉള്ള വോൾട്ടേജ് സോഴ്സിനു നോർട്ടൺ ഇക്വിവാലന്റ് ആയിരിക്കും ഇവിടെ മൈനസ് ii ഉള്ളതിന് കാരണം കറണ്ട് സോഴ്സ് താഴേക്കാണ് പോയിന്റ് ചെയ്യുന്നത് എന്നതാണ് അതേസമയം വോൾട്ടേജ് സോഴ്സിൽ പോസിറ്റീവ് ടെർമിനൽ മുകളിലാണ് ഈ മാപ്പിംഗോടെ നമ്മുടെ സർക്യൂട്ടിന് ലഭിച്ച ഫലങ്ങൾ കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിന് ഉപയോഗിക്കാവുന്നതാണ് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം RG എന്നതിനുപകരം Rm എന്നാക്കി മാറ്റുക എന്നതാണ് ഇത് നിസ്സാരമായ ഒരു ഭേദഗതിയാണ് ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇങ്ങനെയുള്ള സമവാക്യം നൽകുന്നു vovi gmRGRL RLgmRLRsRsRGRL ഇനി ഒരു മാത്രം കാര്യം മാറ്റി കൊണ്ട് നമുക്ക് ഇതേ കാര്യം തന്നെ ആവർത്തിക്കാം vi എന്നതിന് പകരം iiRs എന്നാക്കി മാറ്റണം അങ്ങനെ ചെയ്യുമ്പോൾ അതിനു തുല്യമായി vo iiRs എന്നു ലഭിക്കും എനിക്കിവിടെ vo ii മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ഇതിനെ Rs കൊണ്ട് ഗുണിക്കുക അതിനാൽ voiiRsgmRLRsRsRmRLഎന്നാവും ഇനി നമുക്ക് വേണ്ടിയിരുന്നത് Rm ആണ് ഇനി ഈ സമവാക്യം അതിന് തുല്യം ആകുമോ അങ്ങനെയാണ് ഇത് തോന്നിക്കുന്നത് ഈ ടേം ഡിനോമിനേറ്ററിൽ മുന്നിട്ടു നിൽക്കുന്നു എന്ന് കരുതുക ഇത് ഡിനോമിനേറ്ററിൽ മുന്നിട്ടു നിൽക്കുന്ന ഒരേ ഒരു ടേം ആണെന്ന് കരുതുക തീർച്ചയായും ഇത് അതിനേക്കാൾ മുന്നിട്ടുനിൽക്കുന്നു ഇത് വിഷമകരം അല്ല കാരണം gmRm എന്നത് ഒന്നിനേക്കാൾ വളരെ വലുതാണ് അതുകൊണ്ട് ഇത് അതിനേക്കാൾ മുന്നിട്ടു നിൽക്കും gmRm1 എന്നും gmRLRsRsRmRL എന്നുമാണെങ്കിൽ ഇവ Rm എന്നതിന് ഏകദേശം തുല്യമായിരിക്കും എന്ന് വ്യക്തമായി ഇവിടെ കാണാൻ സാധിക്കും അതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് ഉപയോഗിച്ച് സിന്തസൈസ് ചെയ്ത കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് അങ്ങനെ പെരുമാറുന്നു ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറൻറ് ഇവ തമ്മിലുള്ള കൃത്യമായ അനുപാതം Rm അല്ല പക്ഷേ അതിനോട് അടുത്ത ഒരു വാല്യൂ ആയിരിക്കും യഥാർത്ഥത്തിൽ ഈ നിബന്ധനകൾ തൃപ്തികരമാണെങ്കിൽ ഇത് Rm എന്നതിന് അടുത്തു നിൽക്കും അതിനാൽ കമ്പണന്റ് വാല്യൂസ് തെരഞ്ഞെടുക്കുമ്പോൾ ഈ നിബന്ധനകൾ തൃപ്തികരമായി പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇതാണ് voii യുടെ സമവാക്യം ഇത് നമുക്ക് പലതരത്തിൽ ലഘൂകരിച്ച് ഫലം എന്തു ലഭിക്കുന്നു എന്ന് കാണാം ആദ്യമായി ഇത് ഒരു ഐഡിയൽ കറൻറ് സോഴ്സ് ആണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അതായത് Rs സമം ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ സമവാക്യം മൂല്യനിർണയം ചെയ്യേണ്ടത് Rs ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന ലിമിറ്റിലാണ് ഇത് ചെയ്യാൻ എളുപ്പമാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്നിവ Rs കൊണ്ട് ഹരിക്കുക അപ്പോൾ gmRmRL RLgmRL1RmRL Rsഎന്നു ലഭിക്കും തീർച്ചയായും Rs ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇത് ഇല്ലാതാകുന്നു എനിക്ക് gmRmRL RLgmRL1എന്ന് ലഭിക്കുന്നു ഞാൻ എല്ലാ ടേംസിനെയും gmRL കൊണ്ട് ഹരിക്കും അങ്ങനെയാകുമ്പോൾ Rm 1 എന്നു ലഭിക്കും അപ്പോൾ ഇതാണ് സമവാക്യം ഇത് ഒരു ഐഡിയൽ കറൻറ് സോഴ്സ് ആണ് ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ അതായത് Rs സമം ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതാണ് സമവാക്യം ഇനി ഇത് എന്താണ് പറയുന്നത് അതായത് gm വളരെ വലുതാണെങ്കിൽ അല്ലെങ്കിൽ gmRm 1 ആണെങ്കിൽ ന്യൂമറേറ്ററിലെ ഈ ടേം വളരെ ചെറുതായിരിക്കും ഇതിനെ അവഗണിക്കുന്നതാണ് അതുപോലെ gmRL1 ആണെങ്കിൽ Rm എന്നതിന് അടുത്തുവരും അതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലെയും കൺട്രോൾഡ് സോഴ്സസിലെയും പോലെ ട്രാൻസിസ്റ്ററിൻറെ gm അഥവാ ട്രാൻസ് കണ്ടക്ടൻസ് വളരെ വലുതായിരിക്കണം ഇത് വളരെ വലുതാണെങ്കിൽ അഥവാ gm ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ ബന്ധം ലഭിക്കും ഉദാഹരണത്തിന് gm ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കൃത്യമായി Rm ലഭിക്കും ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവിടെയും gm ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ Rm മാത്രം ലഭിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും gm പരിമിതമാണെങ്കിൽ Rm ൽ നിന്നും ചെറുതായി വ്യതിചലിക്കും എല്ലാ കൺട്രോൾഡ് സോഴ്സസിൻറെയും കാര്യം ഇങ്ങനെ തന്നെ ആയിരുന്നു ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു സോഴ്സ് ഫോളോവറിനുവേണ്ടി യൂണിറ്റി ഗെയിനോട് കൂടിയ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നമുക്ക് വേണ്ടിയിരുന്നു പക്ഷേ സോഴ്സ് ഫോളോവർ ഗെയിൻ ഒന്നിന് അടുത്താണ് എന്ന് നിങ്ങൾക്കറിയാം എങ്കിലും ഇത് കൃത്യം ഒന്ന് അല്ല gm ഇൻഫിനിറ്റ് ആണെങ്കിൽ ഒന്നിന് തുല്യമായിരിക്കും അതുകൊണ്ട് Rs ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് ലഭിക്കും ഈ രണ്ടു സമവാക്യങ്ങൾ കാണാം ഇത് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ ഗെയിൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറൻറ് എന്നിവ തമ്മിലുള്ള അനുപാതം ആണ് ഇത് ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ സോഴ്സ് ആംപ്ലിഫയറിൻറെ ഗെയിൻ ആണ് ഇവിടെ നമുക്ക് ഈ ടേം മുന്നിട്ടുനിൽക്കുന്നതായിരിക്കണം ഇതു മുന്നിട്ടുനിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഏകദേശം ലഭിക്കും voiiഏതാണ്ട് Rm എന്നതിന് തുല്യമായിരിക്കും അതേസമയം ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ സോഴ്സ് ആംപ്ലിഫയറിൻറെ കാര്യം ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ RG മുന്നിട്ടു നിൽക്കുന്നതാകണമായിരുന്നു ഇത് മുന്നിട്ടുനിൽക്കുകയാണെങ്കിൽ voiiഎന്നത് ഏകദേശം gmRL എന്നു ലഭിക്കും അതിനാൽ ഇവ രണ്ടും പരസ്പരം വ്യത്യസ്തമാണ് കമ്പണന്റ്സിൻറെ വാല്യൂസിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും RG മറ്റെല്ലാ ടേംസിനെക്കാളും പ്രബലമാകുന്ന തരത്തിൽ വാല്യൂസ് തെരഞ്ഞെടുത്താൽ ഇതൊരു ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ സോഴ്സ് ആംപ്ലിഫയർ പോലെ പെരുമാറുന്നു മുന്നിട്ടുനിൽക്കുന്ന തരത്തിൽ വാല്യൂസ് തെരഞ്ഞെടുത്താൽ gm അടങ്ങുന്ന ടേം മുന്നിട്ടുനിൽക്കും അങ്ങനെയെങ്കിൽ ഇത് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയി പെരുമാറും സർക്യൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നു കൂടി മനസ്സിലാക്കണം എന്നാണ് ഇത് പ്രതിപാദിക്കുന്നത് ഇവ ഒരേപോലെയുള്ള സർക്യൂട്ട് ആയിരിക്കും രണ്ടിൻറെയും ടോപ്പോളജിയും ഒരുപോലെ ആയിരിക്കും പക്ഷേ കമ്പണന്റ്സിൻറെ വാല്യൂസ് അനുസരിച്ച് ഇവയുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും